സോഫ്റ്റ് സ്കില്ലുകളെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളിലേക്ക് സ്വാഗതം മുമ്പത്തെ പ്രഭാഷണങ്ങളിൽ റിപ്പോർട്ടുകൾ അവയുടെ നിർവചനങ്ങൾ പ്രാധാന്യം ലക്ഷ്യങ്ങൾ തരങ്ങൾ എന്നിവ ഞങ്ങൾ ചർച്ചചെയ്തു ഇപ്പോൾ ഒരു റിപ്പോർട്ട് എഴുതാൻ നമ്മളെ സഹായിക്കുന്ന വിവിധ തന്ത്രങ്ങൾ നാം മനസിലാക്കുന്ന സമയമാണിത് ഇപ്പോൾ നിങ്ങൾക്ക് റിപ്പോർട്ട് എഴുതാനുള്ള ചുമതല ലഭിച്ചുവെന്ന് കരുതുക നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കാൻ തുടങ്ങും ഇപ്പോൾ ഇവിടെ നടക്കുന്ന 2 പ്രഭാഷണങ്ങൾ വിവിധ തന്ത്രങ്ങൾ നിങ്ങളെ അറിയിക്കും ഒരു റിപ്പോർട്ട് എഴുതുന്നതിനുള്ള ചുമതല നിങ്ങൾക്ക് നൽകപ്പെടുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആദ്യത്തേത് നിങ്ങളുടെ ലക്ഷ്യവും വ്യാപ്തിയും തിരിച്ചറിയുക തുടർന്ന് നിങ്ങളുടെ പ്രേക്ഷകരെ നിർണ്ണയിക്കുക ഡാറ്റ ശേഖരണത്തിന്റെ ശരിയായ രീതി തിരഞ്ഞെടുക്കുക മെറ്റീരിയൽ ഓർഗനൈസുചെയ്യുക തുടർന്ന് ഒരു രൂപരേഖ തയ്യാറാക്കുക ഇപ്പോൾ നമ്മുടെ ലക്ഷ്യവും വ്യാപ്തിയും തിരിച്ചറിയുന്നതിലൂടെ യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഈ റിപ്പോർട്ട് എഴുതുന്നതെന്ന് നമുക്ക് സ്വയം ചോദിക്കാം അതിനാൽ നിങ്ങൾ ആദ്യം ഈ ചോദ്യം സ്വയം ചോദിക്കുമ്പോൾ റിപ്പോർട്ട് എഴുതുന്നതിനുള്ള ഈ ചുമതല നിങ്ങൾക്ക് ആരാണ് നൽകിയതെന്ന് അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ കാരണം ഈ ചുമതല നിങ്ങൾക്ക് നിയോഗിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് ഒരു റഫറൻസ് കാലാവധിയും നൽകുന്നു ചുരുക്കത്തിൽ ഇതിനെ TOR എന്ന് വിളിക്കുന്നു ഈ TOR അല്ലെങ്കിൽ ടേംസ് ഓഫ് റഫറൻസ്സ് അഥവാ റഫറൻസ് നിബന്ധനകൾ ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഒരു നിർദ്ദേശം നൽകുന്നു അവിടെ അത് പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുന്നു മാത്രമല്ല ഇത് നിങ്ങളോട് അതിൻറെ വ്യാപ്തിയും പറയുന്നു അതുവഴി അർത്ഥമാക്കുന്നത് ഇതൊക്കെയാണ് ആരാണ് ഈ റിപ്പോർട്ട് വായിക്കുകയെന്നത് റിപ്പോർട്ടിൽ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത് അതിനാൽ നിങ്ങൾ പ്രശ്നത്തെക്കുറിച്ച് അറിഞ്ഞുകഴിഞ്ഞാൽ ചുമതല എളുപ്പമാകും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ വായനക്കാരെ അറിയുക കാരണം നിങ്ങളുടെ വായനക്കാർക്ക് ഭാഷാ ഉപയോഗത്തെ അടിസ്ഥാനമാക്കി പ്രശ്നം മനസിലാക്കുന്നതിനായി നിങ്ങളുടെ റിപ്പോർട്ട് ഓറിയന്റുചെയ്യാൻ കഴിയും അതിനാൽ ഓരോ റിപ്പോർട്ട് എഴുത്തുകാരനും ഒരാളുടെ റിപ്പോർട്ടിന്റെ വ്യാപ്തി മനസിലാക്കാൻ കുറച്ച് സമയം ചെലവഴിക്കേണ്ടതുണ്ട് എന്നത് വളരെ പ്രധാനമാണ് നിങ്ങൾ ഒരു വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഒരു മെസ് സെക്രട്ടറിയായി ചുമതല വഹിച്ചതായി സങ്കൽപ്പിക്കുക മെസ്സുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ട് എഴുതാനുള്ള ചുമതല നിങ്ങളുടെ ചീഫ് വാർഡൻ നിങ്ങൾക്ക് നൽകി കാരണം അദ്ദേഹത്തിന് ചില പരാതികൾ വൈകി ലഭിക്കുകയും പിന്നീട് ചില മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു പക്ഷേ അതിനായി ഒരു റിപ്പോർട്ട് എഴുതുന്നതിനുള്ള ചുമതല നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് മെസിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ട് എഴുതുക എന്നതാണ് ഇപ്പോൾ വിഷയം എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ വിഷയം മനസിലാക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചീഫ് വാർഡന് എന്ത് തരത്തിലുള്ള മാറ്റങ്ങളാണ് വേണ്ടതെന്ന് അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു തീർച്ചയായും സമയത്തെക്കുറിച്ച് ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് വെജിറ്റേറിയൻ ഭക്ഷണത്തിന്റെ ആവൃത്തിയെക്കുറിച്ചോ മധുര പലഹാരങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അത് പോലുള്ള ഒരു ആശയം അദ്ദേഹം നിങ്ങൾക്ക് നൽകിയേക്കാം അത്തരമൊരു സാഹചര്യത്തിൽ ടേംസ് ഓഫ് റഫറൻസ്സ് സൂചിപ്പിച്ചിരിക്കുന്നതുപോലെ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പ്രശ്നത്തെക്കുറിച്ച് അറിയാം ഒരിക്കൽ നിങ്ങൾ ടേംസ് ഓഫ് റഫറൻസ്സ് തയ്യാറായിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പ്രേക്ഷകരെയോ നിങ്ങളുടെ റിപ്പോർട്ടിന്റെ വായനക്കാരെയോ അറിഞ്ഞിരിക്കണം കാരണം ചീഫ് വാർഡൻ നിങ്ങൾക്ക് ചുമതല നൽകി ഇപ്പോൾ നിങ്ങളുടെ റിപ്പോർട്ടുകൾ വായിക്കാൻ കഴിയുന്ന പ്രേക്ഷകരെ നിങ്ങൾക്കറിയാമെങ്കിൽ ഒരുപക്ഷേ ചീഫ് വാർഡൻ മാത്രമല്ല പിന്നെ ഡീൻ സ്റ്റുഡന്റ്സ് വെൽഫെയർ dean students welfare പിന്നെ ഡെപ്യൂട്ടി ഡയറക്ടർ ഒരുപക്ഷേ ഡയറക്ടർ പോലും റിപ്പോർട്ട് വായിച്ചേക്കാം അതിനാൽ നിങ്ങളുടെ വായനക്കാർ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇത് കേവലം ഒരു ഉദാഹരണം മാത്രമാണ് എന്നാൽ ഒരു റിപ്പോർട്ട് എഴുതുന്നതിനുള്ള ചുമതല നിങ്ങൾക്ക് നൽകിയിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാകാം തുടർന്ന് നിങ്ങളുടെ വായനക്കാർ ആരാകാമെന്നും നിങ്ങളുടെ വായനക്കാർ നിങ്ങളുടെ സുപ്പീരിയർ ഓഫീസർമാരാകാമെന്നും നിങ്ങൾ മനസിലാക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങളുടെ റിപ്പോർട്ട് നിങ്ങളുടെ സുപ്പീരിയർ ഓഫീസർമാർ വായിച്ചേക്കാം ചിലപ്പോൾ ഇത് നിങ്ങളുടെ സഹപ്രവർത്തകർ നിങ്ങളെപ്പോലെയുള്ള മറ്റ് ആരെങ്കിലും വായിച്ചേക്കാം ഇത് സബോർഡിനേറ്റ് ജീവനക്കാർ വായിച്ചേക്കാം മറ്റ് ഓർഗനൈസേഷനുകളിലെ ആളുകൾ ഷെയർഹോൾഡർമാർ ഉപഭോക്താക്കൾ പൊതുജനങ്ങൾ എന്നിവരും വായിച്ചേക്കാം ഇപ്പോൾ നിങ്ങളുടെ റിപ്പോർട്ടിന്റെ പ്രേക്ഷകരെയോ വായനക്കാരനെയോ അറിയുന്നത് നിങ്ങളെ എങ്ങനെ സഹായിക്കും നിങ്ങളുടെ പ്രേക്ഷകരെ അറിയുന്നതിലൂടെ അവരുടെ പശ്ചാത്തലം മാത്രമല്ല അവരുമായുള്ള നിങ്ങളുടെ ബന്ധവും നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് നിങ്ങളുടെ മേലധികാരിയുമായോ ഓഫീസറുമായോ ഉള്ള ബന്ധം വളരെ നല്ലതായിരിക്കാം എന്നാൽ നിങ്ങൾക്കറിയാത്ത മറ്റ് ആളുകളുമായുള്ള നിങ്ങളുടെ ബന്ധം അത്ര നല്ലതായിരിക്കില്ല എന്നാൽ ഇപ്പോൾ ഇത് എല്ലാവർക്കുമായി യോജിക്കുന്ന രീതിയിൽ ഭാഷ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഒരുതരം സ്വാതന്ത്ര്യം നൽകുന്നു തീർച്ചയായും റിപ്പോർട്ട് ലാംഗ്വേജ്ജിൽ report language റിപ്പോർട്ട് ഭാഷയിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരു പ്രത്യേക പ്രഭാഷണം നടത്തും എന്നാൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ബന്ധം വളരെയധികം പ്രവർത്തിക്കുന്നു ഒരു ഓർഗനൈസേഷനിലെ ആരെങ്കിലും റിപ്പോർട്ടുചെയ്യുകയോ റിപ്പോർട്ട് തന്റെ തൊട്ടുമുകളിലെ ബോസിന് സമർപ്പിക്കുകയോ ചെയ്യേണ്ടിവന്നാൽ ആ ഉദ്യോഗസ്ഥനുമായി പരുഷമായ ബന്ധം ഉണ്ടായേക്കാം അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് ഇപ്പോൾ ബോസ് അനുകൂലമല്ലെങ്കിൽ നിങ്ങൾ എന്തുചെയ്യും നിങ്ങളുടെ വായനക്കാരുടെ മനോഭാവം നിങ്ങൾ മനസിലാക്കണമെന്ന് നിങ്ങൾക്കറിയാം കാരണം നിങ്ങളുടെ വായനക്കാർക്ക് ചിലപ്പോൾ നിങ്ങളോട് വളരെ നല്ല ഒരു മനോഭാവമാണ് എന്നാൽ നിങ്ങളുടെ റിപ്പോർട്ടിന്റെ ഓരോ വായനക്കാരനും ഒരേ മനോഭാവമുണ്ടെന്നത് ശരിയല്ല നിങ്ങളുടെ വായനക്കാരൻ അനുകൂലമായ ചിന്തയുള്ള ഒരാൾ ആകാം നിങ്ങളുടെ വായനക്കാരന് നിങ്ങളുടേതിന് സമാനമായ പശ്ചാത്തലമുള്ളതിനാൽ റിപ്പോർട്ട് നന്നായി മനസ്സിൽ ആയേക്കാം എന്നാൽ വായനക്കാരൻ വിരുദ്ധമായ അർത്ഥം കണ്ടെത്തുന്നു എങ്കിൽ അതുവഴി അവർ വിരോധമുള്ള ശത്രുതയുള്ള അനുകൂലമല്ലാത്ത വായനക്കാരൻ ആയി മാറാം അതിനാൽ സ്വാഭാവികമായും നിങ്ങൾ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പ്രത്യാഘാതങ്ങൾ അദ്ദേഹത്തിന് മനസിലാക്കാൻ കഴിയില്ല ഈ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ എടുക്കാൻ പോകുന്ന ഏത് തീരുമാനവും അത്ര നല്ലതായിരിക്കില്ല അതിനാൽ വായനക്കാരന്റെ പരിചയം വായനക്കാരന്റെ മനോഭാവം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങളുടെ വായനക്കാരനെ അറിയുന്നതിലൂടെ നിങ്ങളുടെ ചുമതല വളരെ എളുപ്പമാവുകയും ചെയ്യുന്നു നിങ്ങൾക്കറിയാമോ ശ്രദ്ധാപൂർവ്വം റിപ്പോർട്ട് ചെയ്യുന്ന എഴുത്തുകാർ അവർ വളരെ ബുദ്ധിപരമായി വിശകലനം ചെയ്യുക മാത്രമല്ല അവർ വളരെ ബുദ്ധിപരമായി അത് അവതരിപ്പിക്കുകയും ചെയ്യുന്നു അത്തരമൊരു ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പോകുകയാണെങ്കിലും അത് ആളുകൾക്ക് ദോഷം വരുത്തുന്നില്ല മറ്റ് വകുപ്പുകളെ ദ്രോഹിക്കാൻ പോകുന്നില്ല അതിനാലാണ് ഓരോ ഓർഗനൈസേഷനും റിപ്പോർട്ടുകൾ എഴുതാൻ ബുദ്ധിമാന്മാരായ ചിലരെ ആവശ്യമായി വരുന്നത് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾ പ്രശ്നം തിരിച്ചറിയേണ്ടതുണ്ട് നിങ്ങൾ അതിന്റെ വ്യാപ്തി തിരിച്ചറിയേണ്ടതുണ്ട് അത് എത്രമാത്രം ബാധിക്കും തുടർന്ന് നിങ്ങളുടെ വായനക്കാരന്റെ പശ്ചാത്തലവും നിങ്ങൾ മനസിലാക്കേണ്ടതുണ്ട് നിങ്ങളുടെ വായനക്കാരന്റെ പശ്ചാത്തലം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ ചുമതല എളുപ്പമാകും നിങ്ങൾ ഇപ്പോൾ ഡാറ്റ ശേഖരിക്കേണ്ടതുണ്ട് ഒരു റിപ്പോർട്ട് ഡാറ്റയുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് നാം പറഞ്ഞതുപോലെ ഡാറ്റ വിശകലനം ചെയ്യുകയും വ്യാഖ്യാനിക്കുകയും വേണം എന്നാൽ കൃത്യമായ ഡാറ്റ എവിടെ നിന്ന് ലഭിക്കും ഇതാണ് ചോദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഡാറ്റ നൽകും ചിലപ്പോൾ നിങ്ങൾക്ക് ഡാറ്റ ഉണ്ടാകില്ല നിങ്ങൾ ഡാറ്റ കണ്ടുപിടിക്കണം നിങ്ങൾ ഡാറ്റ പ്രാവർത്തികമാക്കണം നിങ്ങൾ ഡാറ്റ കണ്ടെത്തണം പക്ഷേ അപ്പോൾ ഉറവിടങ്ങൾ ലഭ്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഡാറ്റ നേടാനാകുന്ന വിവിധ ഉറവിടങ്ങൾ ഏതാണ് വ്യക്തിഗത നിരീക്ഷണത്തിലൂടെ നിങ്ങൾക്ക് ഡാറ്റ നേടാനാകും അതായത് ഡാറ്റ ശേഖരണത്തിന് വിവിധ മാർഗങ്ങളുണ്ടെന്ന് ഞാൻ അർത്ഥമാക്കുന്നു എന്നാൽ തുടക്കത്തിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന ആദ്യപടി പ്രാഥമിക ഉറവിടമാണ് പ്രാഥമിക ഉറവിടം നിങ്ങളേക്കാൾ മികച്ചതായിരിക്കില്ല ഒരു വ്യക്തിയെന്ന നിലയിൽ നിങ്ങളുടെ കണ്ണുകൾ തുറന്നിട്ടുണ്ടെന്നും നിങ്ങളുടെ മനസ്സ് തുറന്നിട്ടുണ്ടെന്നും നിങ്ങൾക്ക് ചില നിരീക്ഷണങ്ങൾ നടത്താമെന്നും നിങ്ങൾക്കറിയാം അതിനാൽ വ്യക്തിഗത നിരീക്ഷണം എന്നത് ഡാറ്റ ശേഖരണത്തിന് സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വ്യക്തിഗത നിരീക്ഷണം എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്യുകയും തുടർന്ന് അന്വേഷിക്കുകയും ചെയ്യും വിവരശേഖരണത്തിന്റെ രണ്ട് ഉറവിടങ്ങളുണ്ട് ആദ്യത്തേത് പ്രൈമറി സോർസ് അഥവാ പ്രാഥമിക ഉറവിടമാണ് പ്രാഥമിക ഉറവിടത്തിൽ നമുക്ക് വ്യക്തിഗത നിരീക്ഷണവും അന്വേഷണവുമുണ്ട് ഇപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ കാണുന്നുണ്ടെന്നും അത് നിങ്ങളുടെ സ്വന്തം നിരീക്ഷണമായിരിക്കാമെന്നും കരുതുക പക്ഷേ നിങ്ങൾ അത് പ്രാമാണീകരിക്കേണ്ടതുണ്ട് നിങ്ങൾ അത് പരിശോധിക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ അത് എങ്ങനെ ചെയ്യും അതിനായി നിങ്ങൾക്ക് ഒരു സെക്കൻഡറി മെത്തേഡ് അഥവാ ദ്വിതീയ രീതി ആവശ്യമാണ് ദ്വിതീയ രീതി ലൈബ്രറിയാകാം വായു മലിനീകരണത്തെക്കുറിച്ച് നാം ഒരു റിപ്പോർട്ട് എഴുതുകയാണെന്നും അല്ലെങ്കിൽ മാലിന്യ നിർമാർജനത്തെക്കുറിച്ച് നിങ്ങൾ ഒരു റിപ്പോർട്ട് എഴുതുകയാണെന്നും കരുതുക ഇപ്പോൾ അതിനായി ദ്വിതീയ ഉറവിടങ്ങൾ ലൈബ്രറിയാണ് ഇപ്പോൾ ആളുകൾക്ക് ലൈബ്രറികൾ സന്ദർശിക്കാൻ പോലും സമയമില്ലെന്ന് നിങ്ങൾക്കറിയാം അവർ ചെയ്യുന്നത് ഗൂഗിൾ ചെയ്യുക മാത്രമാണ് അവർ യഥാർത്ഥത്തിൽ ഇന്റർനെറ്റ് സെർച്ചുകൾ അഥവാ തിരയലുകൾ നടത്തുന്നു പക്ഷെ നിങ്ങൾ ബുദ്ധിമാനായ ആളുകൾ ബുദ്ധിമാനായ വ്യക്തികൾ പ്രത്യേകിച്ച് ഇളയവർ അവർ സെർച്ച് എഞ്ചിനുകൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ അല്ലെങ്കിൽ മറ്റൊരിക്കൽ ഉദ്ദേശത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു ഒരു പ്രത്യേക പ്രശ്നത്തിനായുള്ള ഡാറ്റ ശേഖരണത്തിന്റെ അടിസ്ഥാന ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് കാരണം അദ്ദേഹം സെർച്ച് എഞ്ചിനുകൾ ഉപയോഗിക്കുമ്പോൾ മറ്റ് ചില എഞ്ചിനുകളും സന്ദർശിക്കാൻ തുടങ്ങുന്നു ചിലപ്പോൾ അവനെ മറ്റ് ചില എഞ്ചിനുകളിലേക്ക് നയിക്കും അവിടെ പ്രസക്തവും ആധികാരികവുമായ ഡാറ്റ കണ്ടെത്താനാകില്ല അതിനാൽ ഓരോ ഓർഗനൈസേഷനും ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആന്തരിക രേഖകളും നേടാനാകും പ്രത്യേകിച്ചും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിങ്ങൾ ഒരു പ്രത്യേക പ്രശ്നത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് കരുതുക നിങ്ങൾ ലൈബ്രറി സന്ദർശിക്കുകയാണെങ്കിൽ ലൈബ്രറി ഒരു അക്കാദമിക് സ്ഥാപനത്തിന്റെ ആന്തരിക ഉറവിടമാണ് അവിടെ നിരവധി റിപ്പോർട്ടുകൾ ലഭ്യമാണ് ഈ റിപ്പോർട്ടുകൾ എത്രത്തോളം സഹായകരമാണെന്ന് നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് തിരയലുകൾ നടത്താൻ ഇന്റർനെറ്റ് എളുപ്പത്തിൽ ലഭ്യമാണ് നിങ്ങൾ ഇന്റർനെറ്റ് വഴിയോ ആന്തരിക ഉറവിടങ്ങൾ വഴിയോ ഡാറ്റ ശേഖരിക്കുമ്പോൾ വളരെ ശ്രദ്ധാലുവായിരിക്കണമെന്ന് ഓർമ്മിക്കുക ചില സമയങ്ങളിൽ ആളുകൾ ശ്രദ്ധ വിട്ടുപോവുകയും അവർ ഡാറ്റ ശേഖരിക്കുമ്പോൾ വ്യതിചലിക്കുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾക്കറിയാം വിവരശേഖരണത്തിന് നിരവധി മാർഗങ്ങളുണ്ട് അവയിൽ ആദ്യത്തേത് പേഴ്സണൽ ഒബ്സർവേഷൻ അഥവാ വ്യക്തിഗത നിരീക്ഷണമാണ് തുടർന്ന് ടെലിഫോണിക് ഇൻറർവ്യൂസ് അഥവാ ടെലിഫോണിക് അഭിമുഖങ്ങൾ പേഴ്സണൽ ഇൻറർവ്യൂസ് അഥവാ വ്യക്തിഗത അഭിമുഖങ്ങൾ ക്വസ്റ്റ്യൻനേഴ്സ് അഥവാ ചോദ്യാവലി എന്നിവ ഒരു റിപ്പോർട്ടിനായി നിങ്ങൾക്ക് ഡാറ്റ ശേഖരിക്കുന്നതിനുള്ള ചില വഴികളാണിത് പേഴ്സണൽ ഒബ്സർവേഷൻ അഥവാ വ്യക്തിഗത നിരീക്ഷണം എന്താണ് എന്ന് ഇപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം ഒബ്സർവേഷൻ എന്ന വാക്ക് യഥാർത്ഥത്തിൽ 2 പദങ്ങളുടെ മിശ്രിതമാണ് അതിനാൽ അതിലെ ഒബ്സർവേഷൻ യഥാർത്ഥത്തിൽ ഒരു ഉദ്ദേശ്യത്തോടെയാണ് കാണുന്നതെന്ന് മനസ്സിലാക്കാം ഞായറാഴ്ച ട്രാഫിക്കിന്റെ ഒഴുക്ക് അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും അതിനായി നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഒബ്സർവേഷൻ വേണമെന്നും കരുതുക നിങ്ങൾ ആളുകളോട് ചോദിച്ചാൽ ആളുകൾക്ക് നിങ്ങളോട് എന്തെങ്കിലും പറയാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാമെങ്കിലും എന്നാൽ നിങ്ങൾക്ക് ഒരു വ്യക്തിഗത നിരീക്ഷണം നടത്താൻ ആഗ്രഹിക്കുന്നതിനാലോ അല്ലെങ്കിൽ അത് നിങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് കാണാൻ ആഗ്രഹിക്കുന്നതിനാലോ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ സ്വന്തം നിരീക്ഷണം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാൽ അതിനുമുമ്പ് നിങ്ങൾക്ക് ഏതുതരം വായനക്കാരുണ്ടെന്ന് മനസിലാക്കാൻ ശ്രമിക്കാം ഒപ്പം വായനക്കാരെ അറിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണൽ ഒബ്സർവേഷൻ ആരംഭിക്കാം ഇപ്പോൾ പേഴ്സണൽ ഒബ്സർവേഷനിൽ നിങ്ങൾ എന്തുചെയ്യും എന്നതാണ് നിങ്ങൾ സ്വയം പോയി ചില നിരീക്ഷണങ്ങൾ നടത്താം നിങ്ങൾ അത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും എന്നാൽ ഇതിന് ചില പരിമിതികളും ഉണ്ടെന്ന് ഓർമ്മിക്കുക വ്യക്തിപരമായ നിരീക്ഷണം നാം വിശദമായി ചർച്ച ചെയ്യും പക്ഷേ അതിനുമുമ്പ് ഡാറ്റ ശേഖരണത്തിൽ വായനക്കാരുടെ അറിവ് നമ്മളെ എങ്ങനെ സഹായിക്കുമെന്ന് മനസിലാക്കാനും ശ്രമിക്കാം വ്യത്യസ്ത വിഭാഗത്തിലുള്ള വായനക്കാർ ഉണ്ടാകാമെന്ന് ഞാൻ അർത്ഥമാക്കുന്നു ആദ്യത്തേത് ഒരു പ്രൈമറി റീഡർ അഥവാ പ്രാഥമിക വായനക്കാരനാണ് പ്രൈമറി റീഡർ സ്വാഭാവികമായും നിങ്ങൾക്ക് റിപ്പോർട്ട് എഴുത്ത് ചുമതലപ്പെടുത്തിയ നിങ്ങളുടെ ബോസ് ആയിരിക്കും സെക്കൻഡറി റീഡർ അഥവാ ദ്വിതീയ തലത്തിലുള്ള വായനക്കാരൻ മറ്റാരെങ്കിലുമാകാം നിങ്ങൾക്ക് ഒരു ബിസിനസ്സ് ബന്ധം ലഭിച്ച ഓർഗനൈസേഷന് പുറത്തുള്ള വായനക്കാരായിരിക്കാം അവർക്ക് എങ്ങനെ ഉള്ള ഒരു പ്രത്യേകതയുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഒരു വൈദഗ്ദ്ധ്യം ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് ആ വശത്തെക്കുറിച്ച് കുറച്ച് അറിവുണ്ട് ഇവ പ്രധാനമാണ് കാരണം നിങ്ങൾക്കറിയാമല്ലോ ഒരു പ്രത്യേക പ്രശ്നത്തെക്കുറിച്ച് അറിവില്ലാത്ത ഏതൊരു വ്യക്തിക്കും നിങ്ങളുടെ റിപ്പോർട്ടിനോടുള്ള പ്രതികരണങ്ങൾ വ്യത്യസ്തമായിരിക്കാം മാത്രമല്ല പ്രതികരണങ്ങൾ മാത്രമല്ല പ്രതീക്ഷകളും വ്യത്യാസപ്പെട്ടിരിക്കും നിരവധി ആളുകൾ റിപ്പോർട്ട് എഴുതുന്നതിനുള്ള ചുമതല നിങ്ങൾക്ക് നൽകുമ്പോൾ അവർക്ക് അവരുടെതായ പ്രതീക്ഷകളുണ്ട് പക്ഷേ ഒരു റിപ്പോർട്ട് എഴുത്തുകാരനെന്ന നിലയിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വഴിക്ക് പോകണമെന്നും നിങ്ങൾ ഡാറ്റയിൽ പ്രവർത്തിക്കണമെന്നും ഓർക്കുക എന്നാൽ നിങ്ങളെ ഒരിക്കലും ആരും സ്വാധീനിക്കരുത് നിങ്ങളെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ റിപ്പോർട്ട് പക്ഷപാതപരമായി കാണപ്പെടും അതിനാൽ നിങ്ങളുടെ എല്ലാ പക്ഷപാതങ്ങളും മാറ്റിവച്ച് നിങ്ങളുടെ സ്വന്തം ഡാറ്റയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സമയമാണിത് അതിനാലാണ് വ്യക്തിഗത നിരീക്ഷണം ചിത്രത്തിലേക്ക് വരുന്നത് ഇപ്പോൾ നിരീക്ഷണം ഉദ്ദേശ്യത്തോടെയാണ് കാണേണ്ടത് നിങ്ങൾ ഡാറ്റ ശേഖരിക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കുക അത് നിരീക്ഷണം മാത്രമല്ല നിങ്ങൾ ഒരു ഉദ്ദേശ്യത്തോടെ ഒരു നിരീക്ഷണം നടത്തുകയാണെന്നും ഡാറ്റ ശേഖരിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് തീർച്ചയായും നിങ്ങൾ ഒരു നിരീക്ഷണം നടത്തുമ്പോൾ ചില ബാഹ്യ ഘടകങ്ങളും നിങ്ങളെ ബാധിച്ചേക്കാം ചില സമയങ്ങളിൽ നിങ്ങൾ വ്യതിചലിച്ചേക്കാം ചിലപ്പോൾ ഇത് പറയാൻ കഴിയുന്നതുപോലെ നിങ്ങൾ കാണുന്നത് ശരിയായിരിക്കില്ല ഇത് നിങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് കാണുകയും അത് ശരിയാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നതല്ല പക്ഷേ ചിലപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാകാം ഇത് നിങ്ങളെ പക്ഷപാതപരമാക്കും അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ നിരീക്ഷണത്തിൽ നിന്നുള്ള ഡാറ്റയായി നിങ്ങൾ ശേഖരിക്കാൻ പോകുന്നതെന്താണെന്ന് ആദ്യം നിങ്ങളുടെ മനസ്സിൽ തന്നെ ശരിയാക്കണം കാരണം നിരീക്ഷണത്തിലൂടെ നിങ്ങളുടെ പ്രധാന ലക്ഷ്യം സ്വഭാവം അന്വേഷിക്കുക എന്നതാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വ്യക്തിയെ നിരീക്ഷിക്കാം നിങ്ങൾ ഒരു വ്യക്തിയെ നിരീക്ഷിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചില മുഖഭാവങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കാലുള്ള ചില സൂചനകൾ എന്നിവയാൽ നിങ്ങൾ ചില നിഗമനങ്ങളിൽ എത്തിച്ചേർന്നേക്കാം എന്നാൽ നിങ്ങൾ കണ്ടുമുട്ടുന്നതെല്ലാം ശരിയായിരിക്കില്ലെന്ന് ഓർക്കുക ഒരു സ്പീക്കർ ക്ലാസ് മുറിയിൽ വരുമ്പോഴോ പ്രഭാഷണം നടത്താൻ ഹാളിൽ വരുമ്പോഴോ നിങ്ങൾ നിരീക്ഷിക്കുന്നു നിങ്ങൾ അദ്ദേഹത്തെ എറിഞ്ഞ ആദ്യ നോട്ടത്തിൽ അദ്ദേഹം വളരെ ക്ഷീണിതനായിരുന്നു എന്ന് തോന്നപെട്ടു അല്ലെങ്കിൽ അദ്ദേഹത്തിൻറെ മുഖത്തിൻറെ രീതി ക്ഷീണത്തിന്റെ ചില സൂചനകൾ കാണിച്ചു അല്ലെങ്കിൽ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ അല്ലെങ്കിൽ ഒരുതരം നിരാശ എന്നിവ കാണിച്ചു പക്ഷേ ആ മനുഷ്യൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി ദൈവമേ ഒരുപക്ഷേ ആ വ്യക്തിയെക്കുറിച്ചുള്ള എന്റെ നിരീക്ഷണങ്ങൾ തെറ്റായിരിക്കാം നിങ്ങൾ നിരീക്ഷണം നടത്തുമ്പോൾ ഉള്ള അവസ്ഥയും സമാനമാണ് നിങ്ങൾ നിരീക്ഷണം നടത്തുമ്പോൾ സമാനമാണ് നിങ്ങൾക്ക് കുഴപ്പമില്ലെന്ന് അറിയുമ്പോൾ മാത്രമാണ് നിങ്ങൾ ഡാറ്റ ശേഖരിക്കുന്നത് അതിനാൽ വ്യക്തിയുടെ മാനസിക നില എന്താണ് അത് വളരെ പ്രധാനമാണ് മാത്രമല്ല നിങ്ങൾ ഒരു പ്രത്യേക സംഭവം നിരീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് നിരീക്ഷിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് പശ്ചാത്തലവും മനസ്സിലാകില്ല പശ്ചാത്തലത്തിലും ചില കാര്യങ്ങൾ ഉണ്ടാകാം അതിനാൽ നിരീക്ഷണം നിയന്ത്രിക്കാം അത് അനിയന്ത്രിതമാക്കാം നിങ്ങൾ ഒരു വ്യക്തിയോട് ചോദിച്ചാൽ ഒരു പ്രത്യേക പ്രശ്നം ചർച്ച ചെയ്യാൻ ഞാൻ നാളെ നിങ്ങളെ കാണും ഇപ്പോൾ എന്ത് സംഭവിക്കും അതിനാൽ ഈ വ്യക്തി വളരെ നന്നായി തയ്യാറെടുത്ത് ആയിരിക്കും നിങ്ങൾക്ക് അവനോട് ചോദിക്കാൻ കഴിയുന്ന നിരവധി ചോദ്യങ്ങളെക്കുറിച്ചും അദ്ദേഹം ചിന്തിക്കും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മറച്ചുവെക്കുന്നതിനായി അയാൾക്ക് യഥാർത്ഥത്തിൽ അത്തരമൊരു രീതിയിൽ വസ്ത്രം ധരിക്കാൻ കഴിയും അതിനാൽ നിങ്ങൾ നിരീക്ഷിക്കാൻ പോകുമ്പോൾ ഇത് ഒരു നിയന്ത്രിത നിരീക്ഷണമാണോ അല്ലെങ്കിൽ അനിയന്ത്രിതമായ നിരീക്ഷണമാണോ എന്ന് ദയവായി കാണുക നിങ്ങൾ പെട്ടെന്ന് ഒരു വ്യക്തിയെ കണ്ടുമുട്ടുകയും നിങ്ങൾ നിരീക്ഷണം നടത്തുകയും ചെയ്താൽ അതിനാൽ നിങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെന്ന് ആ വ്യക്തിക്ക് അറിയില്ല കാരണം ഒരു വ്യക്തി അവൻ അല്ലെങ്കിൽ അവൾ നിരീക്ഷിക്കപ്പെടുന്നുവെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അവർ ചില മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട് അതിനാൽ നിരീക്ഷകന്റെയോ ഡാറ്റ ശേഖരിക്കുന്ന വ്യക്തിയുടെയോ ആവശ്യം ഒരു വ്യക്തിയുടെ അറിവില്ലാതെ അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കലാണ് അദ്ദേഹത്തെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് മറ്റ് പാർട്ടികൾ മനസ്സിലാക്കാതെ എന്നത് ഞാൻ ഉദ്ദേശിക്കുന്നു മാത്രമല്ല ഒരു രീതിയെന്ന നിലയിൽ നിരീക്ഷണം ഡാറ്റാ ശേഖരണത്തെ എങ്ങനെ സഹായിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും വേണം തീർച്ചയായും ഇത് നിരീക്ഷണത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആദ്യ കൈ അറിവാണ് പക്ഷേ ആദ്യ കൈ അറിവ് ഒരു പ്രതിനിധി ഡാറ്റയായി പ്രവർത്തിക്കും കാരണം ഇത് ഡാറ്റാ ശേഖരണത്തിന്റെ ആദ്യപടി മാത്രമാണ് പിന്നീട് പരിശോധിച്ചുറപ്പിച്ചേക്കാം എന്നാൽ നിങ്ങൾ ഒരു വ്യക്തിയെ മൂന്ന് ദിവസത്തേക്ക് നിരീക്ഷിക്കുകയോ അല്ലെങ്കിൽ മൂന്ന് ദിവസം പതിവായി ട്രാഫിക് പ്രവാഹം നിരീക്ഷിക്കുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ചില ആശയങ്ങളുണ്ടാകാം പക്ഷേ നിങ്ങൾ നിരീക്ഷിക്കുമ്പോൾ ഓർക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി ആരാണെന്ന് സ്വയം ചോദിക്കണം നിങ്ങൾ അവനെ നിരീക്ഷിക്കുന്നതിൻറെ കാരണം ശ്രദ്ധിക്കുക ഈ നിരീക്ഷണത്തിലൂടെ നിങ്ങൾ ശേഖരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിരിക്കുക ഇത് ഒരു പ്രത്യേക ശീലമാണോ ഒരു പ്രത്യേക പ്രവണതയാണോ വ്യക്തിയുടെ ഒരു പ്രത്യേക ഗുണമാണോ അതും കണക്കിലെടുക്കേണ്ടതാണ് ശ്രദ്ധയുള്ള ആളുകൾക്ക് കുറിപ്പുകൾ എടുക്കുന്നു എന്ന് മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുത്തേക്കാം എന്നാൽ ഒരു വ്യക്തിയെ നിരീക്ഷിക്കുമ്പോൾ ഓർക്കുക നിങ്ങൾ കുറിപ്പുകൾ എടുക്കുകയാണെങ്കിൽ അത് മുഴുവൻ നിരീക്ഷണ പ്രക്രിയയെയും വീണ്ടും ബാധിച്ചേക്കാം അതുകൊണ്ടാണ് നിങ്ങൾ നിരീക്ഷണം നടത്തുമ്പോൾ മറ്റുള്ളവരെ നിരീക്ഷിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ അനുവദിക്കരുതെന്ന് ഞാൻ പറഞ്ഞത് അല്ലാത്തപക്ഷം അവർ കൂടുതൽ തയ്യാറാകുകയും നിങ്ങളുടെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം പരാജയപ്പെടുകയും ചെയ്യും മാത്രമല്ല നിങ്ങളുടെ സ്വന്തം പക്ഷപാതത്തെക്കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾ മാത്രം കാണാൻ ആഗ്രഹിക്കുന്നത് ദയവായി കാണരുത് ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ വ്യതിചലിക്കുന്നു കാരണം നിങ്ങൾ ഒരു നിരീക്ഷണം നടത്തുമ്പോൾ നിങ്ങൾ മറ്റെന്തെങ്കിലും നിരീക്ഷിക്കാൻ തുടങ്ങുന്നു അത് നിരീക്ഷണത്തിന്റെ അടിസ്ഥാന ലക്ഷ്യത്തെ പരാജയപ്പെടുത്തും ഇപ്പോൾ നിരീക്ഷണം നടത്തുമ്പോൾ ഒരാൾ ചില മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾ നിരീക്ഷണം നടത്തുകയാണെന്നും അതിനെ തടസ്സപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ടെന്നും നിങ്ങൾക്ക് തോന്നുന്നു ഉദാഹരണത്തിന് നിങ്ങൾ ഒരു വ്യക്തിയെ നിരീക്ഷിക്കുകയാണ് അയാൾ പെട്ടെന്ന് തന്റെ ഭാവം മാറ്റിയേക്കാം അയാൾ ആംഗ്യം മാറ്റുകയോ അല്ലെങ്കിൽ പദപ്രയോഗം മാറ്റുകയോ ചെയ്തേക്കാം അതിനാൽ ഇവയെക്കുറിച്ചെല്ലാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ദയവായി അത് അവഗണിക്കുക എന്നാൽ ഇത് അവഗണിക്കുമ്പോൾ നിങ്ങൾ നിരീക്ഷിക്കുന്ന കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക കാരണം നിങ്ങൾ ഡാറ്റ ശേഖരണ പ്രക്രിയയായി നിരീക്ഷണം നടത്താൻ പോകുന്നു നിങ്ങൾ പ്രത്യേകമായി അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം മുൻവിധി ഒഴിവാക്കുക എന്നതാണ് ചിലപ്പോൾ നമ്മൾ സ്വയം മുൻവിധിയോടെ പെരുമാറുന്നു കൃത്യമായി ഇല്ലാത്തത് നാം കാണുന്നു ഞാൻ ഇവിടെ ഉപദേശിക്കുന്നത് നിങ്ങളുടെ മനസ്സിന്റെ കണ്ണ് ഉപയോഗിക്കുക ചിലപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളെ പല തരത്തിൽ വഞ്ചിക്കുന്നു കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ് ചില സമയങ്ങളിൽ നമ്മൾ ചില വികാരങ്ങളിൽ ഏർപ്പെടുന്നു അതിനാൽ ഈ മണിക്കൂറിലെ ആവശ്യം നിങ്ങളുടെ ആസക്തികളെ മാറ്റിനിർത്തുക എന്നതാണ് മാത്രമല്ല അത് നിങ്ങളുടെ മനസ്സിന്റെ കണ്ണിൽ നിന്ന് കാണുകയുമാണ് നിങ്ങളുടെ മനസ്സിന്റെ കണ്ണിൽ നിന്ന് നിങ്ങൾ അത് കാണുമ്പോൾ ഒരുപക്ഷേ ഡാറ്റ ശേഖരണത്തിന്റെ ഒരു രീതിയായി നിരീക്ഷണം മനസിലാക്കാൻ നിങ്ങൾ മെച്ചപ്പെട്ട സ്ഥാനത്ത് ആയിരിക്കും ചില സമയങ്ങളിൽ നിങ്ങൾ നിരീക്ഷണങ്ങൾ റെക്കോർഡുചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് നിരവധി സൌകര്യങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാം ഈ സൌകര്യങ്ങൾ സുഗമമാക്കിയിട്ടുണ്ടെന്ന് മാത്രമല്ല ചില സമയങ്ങളിൽ അവ പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ഒരു വ്യക്തിയുടെ പെരുമാറ്റം റെക്കോർഡുചെയ്യുന്നുവെന്ന് കരുതുക എന്നാൽ നിങ്ങൾ അത് വളരെ മറഞ്ഞിരിക്കുന്ന രീതിയിൽ റെക്കോർഡുചെയ്യുകയും പിന്നീട് അത് വെളിപ്പെടുത്തുകയും ചെയ്യുന്നുവെങ്കിൽ അത് വീണ്ടും നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം അതിനാൽ നിങ്ങൾ ചില കാര്യങ്ങൾ റെക്കോർഡുചെയ്യുമ്പോൾ നിങ്ങൾ വളരെ വ്യക്തമായിരിക്കണമെന്ന് കാണുക മൊത്തത്തിലുള്ള റെക്കോർഡിംഗ് എന്ന് ഒന്നുമില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു നിരീക്ഷകനെന്ന നിലയിലോ അല്ലെങ്കിൽ ഡാറ്റ ശേഖരിക്കാൻ പോകുന്ന ഒരു വ്യക്തിയെന്ന നിലയിലോ അയാൾ വളരെ വ്യക്തമായിരിക്കണം ചില കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഡാറ്റ വളരെ നിർണ്ണായകമാണെങ്കിൽ നിങ്ങൾ റിപ്പോർട്ടുചെയ്യാൻ പോകുകയാണെങ്കിൽ നിങ്ങൾ കണക്കാക്കാൻ പോകുകയാണെങ്കിൽ ഒരു പ്രത്യേക സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഡാറ്റ ലഭിക്കാൻ പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ ട്രാഫിക് ഫ്ലോ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ ആരും നിങ്ങളെ ഉപദ്രവിക്കാൻ പോകുന്നില്ല നിങ്ങൾ എഴുതുകയാണെങ്കിലും ആരെയും ബാധിക്കില്ല എന്നാൽ നിങ്ങൾ ഒരു വ്യക്തിയെ നിരീക്ഷിക്കുകയും പിന്നീട് എഴുതുകയും ചെയ്യുന്നത് വളരെ നെഗറ്റീവ് രീതിയിൽ കലാശിച്ചേക്കാമെന്ന് ഓർമ്മിക്കുക തീർച്ചയായും പേനയും പേപ്പറും എപ്പോഴും തയ്യാറായിരിക്കണം ബുദ്ധിമാന്മാരായ ആളുകൾ അവർ ചെയ്യുന്നത് അവർക്ക് യഥാർത്ഥത്തിൽ വളരെ നല്ല ഓർമ്മയുണ്ട് അവർ നിരീക്ഷണം നടത്തുമ്പോൾ അവർ ആ സംഭവത്തിൽ നിന്നോ ആ സ്ഥലത്ത് നിന്നോ അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്നോ വന്നാൽ ഉടൻ തന്നെ അത് എഴുതുന്നു ഒരു വ്യക്തിയുടെ നിരീക്ഷണത്തിനിടയിലോ നിങ്ങൾക്ക് ഒരിക്കലും അറിയാത്ത ഒരു പ്രത്യേക സംഭവത്തിലോ പേനയും പേപ്പറും പ്രദർശിപ്പിക്കുന്നത് ഓർക്കുക കാരണം നിങ്ങളുടെ ഡാറ്റാ ശേഖരണത്തെ ഏതെങ്കിലും ക്ഷണികമായ മാറ്റങ്ങൾ ബാധിക്കുമെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ആവശ്യകത എന്തെന്നാൽ നിങ്ങൾ വളരെ കൃത്യമായിരിക്കണം നിങ്ങൾ നിരീക്ഷണത്തിലൂടെ ഡാറ്റ ശേഖരിക്കുമ്പോൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മറ്റ് വഴികളുമുണ്ട് നിരീക്ഷണം ഒരു പ്രൈമറി സോർസ് അഥവാ പ്രാഥമിക ഉറവിടമാകാം തുടർന്ന് ഇൻവെസ്റ്റിഗേഷൻ അഥവാ അന്വേഷണം ഇന്റർനെറ്റ് ഇന്റെർനൽ സോർസ് അഥവാ ആന്തരിക സ്രോതസ്സുകൾ ലൈബ്രറി എന്നിവ ഞാൻ പറഞ്ഞതുപോലെ സെക്കൻഡറി സോർസ്സുകൾ ആണ് ദ്വിതീയ സ്രോതസ്സുകളാണ് അതിനാൽ ഇന്റെർനൽ സോർസ്സുകൾ ഉപയോഗിക്കാൻ പോകുമ്പോൾ നിങ്ങൾ വളരെ വ്യക്തമായിരിക്കണം കാരണം നിങ്ങളുടെ പ്രധാന ലക്ഷ്യം ഡാറ്റ ശേഖരിക്കുക എന്നതാണ് വായു മലിനീകരണത്തെക്കുറിച്ചുള്ള ഡാറ്റ ശേഖരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക നിങ്ങൾ ലൈബ്രറിയിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് നിങ്ങളെ മറ്റൊരു മേഖലയിലേക്ക് കൊണ്ടുപോകും അവിടെ നിങ്ങൾക്ക് വായുവിനെ പറ്റി പ്രതിപാദിക്കുന്ന പുസ്തകങ്ങൾ ലഭിക്കും പക്ഷേ അത് വ്യത്യസ്ത സ്വഭാവമുള്ളതാണ് അതിനാൽ സ്വാഭാവികമായും ഇത് നിങ്ങളെ വഴിതെറ്റിക്കുകയും നിങ്ങളുടെ സമയം പാഴാക്കാൻ ഇടയാക്കുകയും ചെയ്യും അതിനാൽ നിങ്ങൾ ഒരു ലൈബ്രറി അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ ഉപയോഗിക്കുകയാണെങ്കിൽ അവ വളരെ ശ്രദ്ധാപൂർവ്വം ഉപയോഗിക്കുക മറ്റ് സെർച്ച് എഞ്ചിനുകൾ സന്ദർശിക്കാതിരിക്കുന്നത് എല്ലായ്പ്പോഴും ഉചിതമാണ് എന്നാൽ ഡാറ്റ ശേഖരണത്തിനായി ഒരു പ്രത്യേക വിഷയത്തിൽ നിങ്ങൾ വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റ് ചില എഞ്ചിനുകൾ സന്ദർശിക്കാൻ കഴിയുമെന്ന് സ്ഥിരീകരിക്കുക എന്നാൽ വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടാകരുത് എന്ന് ഓർക്കുക ചിലപ്പോൾ മറ്റ് എഞ്ചിനുകളിൽ ലഭ്യമായ ഡാറ്റ ഉണ്ടായിരിക്കാം പക്ഷേ നിങ്ങളുടെ വിഷയത്തിന് യാതൊരു പ്രസക്തിയും ലഭിക്കുന്നില്ല അതിനാൽ മറ്റ് സെർച്ച് എഞ്ചിനുകൾ സന്ദർശിക്കാൻ നിങ്ങളെ അനുവദിക്കരുത് കാരണം ഇത് ഒരു പ്രത്യേക പദമോ ഒരു പ്രത്യേക വാക്യമോ ആകാം അത് നിങ്ങളെ വശീകരിക്കുകയോ നിങ്ങളെ പ്രലോഭിപ്പിക്കുകയോ ചെയ്യാം ശരിയായ വിവരങ്ങൾ ലഭിക്കുന്നതിന് നിർദ്ദിഷ്ട പദങ്ങളും ശൈലികളും ഉപയോഗിക്കുന്നത് എല്ലായ്പ്പോഴും നല്ലതാണ് തീർച്ചയായും കൃത്യത കൈവരിക്കുന്നതിനും നിങ്ങളുടെ ഡാറ്റ ശേഖരണവുമായി ബന്ധപ്പെട്ട് ആധികാരികത കൈവരിക്കുന്നതിനും നിങ്ങൾക്ക് മറ്റ് ചാനലുകളിൽ നിന്നോ മറ്റ് സെർച്ച് എഞ്ചിനുകളിൽ നിന്നോ സ്ഥിരീകരിക്കാം പക്ഷേ അനാവശ്യമായി മറ്റുള്ള സെർച്ച് എഞ്ചിനുകൾ വെറുതെ സന്ദർശിച്ച് നിങ്ങളുടെ സമയവും ഊർജ്ജവും ദുരുപയോഗം ചെയ്യരുതെന്ന് നിർദ്ദേശിക്കുന്നു ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് പോരായ്മകൾ തീർച്ചയായും ഒരു പ്രൈമറി സോർസ് അഥവാ പ്രാഥമിക ഉറവിടമെന്ന നിലയിൽ നിരീക്ഷണം വളരെ പ്രയോജനകരമാണ് കാരണം ഇത് നമുക്ക് ആദ്യത്തെ അറിവ് നൽകുന്നു പക്ഷേ നിങ്ങൾ ഇതിൽ ഒതുങ്ങി പോകരുത് എന്ന് ഓർക്കുക അല്ലെങ്കിൽ ഡാറ്റാ ശേഖരണത്തിനുള്ള ഏക മാർഗ്ഗമായി നിങ്ങൾ നിരീക്ഷണം ഉപയോഗിക്കേണ്ടതില്ല കാരണം നിരീക്ഷണത്തിന് ചില പരിമിതികൾ ഉണ്ട് ചിലപ്പോഴൊക്കെ ആളുകൾക്ക് തോന്നുന്നത് അത്തരം ഒരു സംഭവം ഇടയ്ക്കിടെ സംഭവിക്കുന്നു അത് നമ്മൾ വഹിക്കുന്ന പക്ഷപാതിത്വത്തിന്റെ ഫലമായിരിക്കാം ഒരു പ്രത്യേക റോഡിലെ ട്രാഫിക് ഒഴുക്ക് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഞായറാഴ്ചയായിരിക്കാം മറ്റെല്ലാ ഞായറാഴ്ചകളിലും ഇത് സംഭവിക്കാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഒരുപക്ഷേ നിങ്ങൾ തെറ്റായ ധാരണയിലായിരിക്കാം കാരണം മറ്റ് ചില ഞായറാഴ്ച കാലാവസ്ഥ അത് പോലെ ആയിരിക്കില്ല അത് വളരെ കൊടുങ്കാറ്റുള്ള ഒരു മഴയുള്ള ദിവസമായിരിക്കാം ട്രാഫിക് ഉണ്ടാകണമെന്നില്ല അതിനാൽ ഒരു രീതിയെന്ന നിലയിൽ നിരീക്ഷണത്തിന് ചില പരിമിതികളുണ്ടെന്ന് ദയവായി കാണുക സമയം വളരെ പ്രധാനമാണ് നിരീക്ഷണം വളരെ വേഗതയുള്ളതാണ് ഡാറ്റ ശേഖരണത്തിന്റെ ഒരു രീതിയായി നിങ്ങൾ നിരീക്ഷണം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് യഥാർത്ഥത്തിൽ വളരെ മന്ദഗതിയിലായേക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഡാറ്റ ശേഖരണത്തിന്റെ സ്വഭാവമനുസരിച്ച് ഒരു പ്രത്യേക കാര്യം സംഭവിക്കാൻ നിങ്ങൾ കാത്തിരിക്കേണ്ടിവരും ചിലപ്പോൾ അത് സംഭവിക്കാതിരിക്കാം അതിനാൽ വിവരശേഖരണത്തിന്റെ ഒരു മാർഗ്ഗമെന്ന നിലയിൽ ഇത് ചെലവേറിയതാണ് കാരണം ആളുകളുടെ പെരുമാറ്റ വശത്തെക്കുറിച്ചുള്ള വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഓരോ വ്യക്തിക്കും പോയി നിരീക്ഷിക്കാൻ കഴിയില്ല മാത്രമല്ല ഡാറ്റാ ശേഖരണത്തിന്റെ ഒരു രീതിയായി നിരീക്ഷണത്തിനായി ഒരു പ്രത്യേക വ്യക്തിയെ ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ലഭ്യമല്ല എന്ന് വന്നേക്കാം മറ്റ് ചില തടസ്സങ്ങളും ഉണ്ടാകാം അതിനാൽ ഡാറ്റ ശേഖരണത്തിന്റെ ഒരേയൊരു മാർഗ്ഗമായി നിങ്ങൾ നിരീക്ഷണം അവസാനിപ്പിക്കരുത് എന്നത് എല്ലായ്പ്പോഴും ഉചിതമാണ് മറിച്ച് നിരീക്ഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ആദ്യത്തെ അറിവാണ് ഇത് എന്ന് മനസിലാക്കുക നിരീക്ഷണത്തിന് പെരുമാറ്റം റിപ്പോർട്ടുചെയ്യാൻ കഴിയും അതിന് അത് വ്യാഖ്യാനിക്കാൻ കഴിയില്ല കാരണം ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ പെരുമാറാൻ വ്യത്യസ്ത കാരണങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാം അതിനായി നിങ്ങൾ മറ്റൊരു നിരീക്ഷണം നടത്തേണ്ടതുണ്ട് അതിനാൽ ഇത് അവസാനിക്കാത്ത പ്രക്രിയയാണ് അതിനാൽ നിങ്ങളുടെ നിരീക്ഷണത്തിൽ നിന്നും വളച്ചൊടിച്ച വിവരങ്ങൾ ഒരു നേരിട്ടുള്ള അറിവോ വിവരമോ ആയി മാത്രമേ പ്രവർത്തിക്കൂ ഡാറ്റാ ശേഖരണത്തിനുള്ള ഏക മാർഗ്ഗമായി നിരീക്ഷണം ഉപയോഗിക്കുന്നതിൽ നിങ്ങൾക്ക് സ്വയം ഒതുങ്ങാൻ കഴിയാത്തതിനാൽ ഡാറ്റ ശേഖരണത്തിന് മറ്റ് വഴികളും ഉണ്ട് അവയിലൊന്ന് ടെലിഫോണിക് ഇൻറർവ്യൂ അഥവാ അഭിമുഖത്തിലൂടെയാണ് സാങ്കേതികവിദ്യ നിയന്ത്രിക്കുന്ന ഒരു യുഗത്തിൽ ടെലിഫോണുകളിൽ ആളുകളുമായി ബന്ധപ്പെടുന്നത് വളരെ എളുപ്പമാണ് എന്നാൽ ഡാറ്റ ശേഖരണത്തിനായി ഇത് ഉപയോഗിക്കുന്നത് ചില ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട് അവ എന്താകുന്നു ഒരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ നിരവധി ആളുകളെക്കുറിച്ചോ വിവരങ്ങൾ ശേഖരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങളിൽ ആളുകൾ വ്യാപിച്ചുകിടക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം ശാരീരികമായി അവരുടെ അടുത്ത് പോയി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് ഞാൻ അവരെ കണ്ടുമുട്ടാൻ പോകുകയും അവരുടെ സ്വഭാവം മനസിലാക്കുകയും ഒരു പ്രത്യേക ചോദ്യത്തിന് അല്ലെങ്കിൽ ഒരു പ്രത്യേക വശത്തിന് ഉത്തരം നേടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ടെലിഫോൺ സമയം ലാഭിക്കാൻ സഹായിക്കുന്നു മാത്രമല്ല ഇത് യാത്രയുടെ ബുദ്ധിമുട്ടുകളിൽ നിന്നും സഹായിക്കുന്നു ആളുകൾ പരന്നുകിടക്കുന്നതിനാൽ നിരവധി ആളുകളെ പോയി കണ്ടുമുട്ടുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ ഇവിടെയാണ് ടെലിഫോൺ പ്രവർത്തിക്കുന്നത് അങ്ങനെ നമുക്ക് ഡാറ്റ ശേഖരിക്കാൻ കഴിയും ടെലിഫോണിക് അഭിമുഖങ്ങളിലൂടെ ടെലിഫോണിൽ ഡാറ്റ ശേഖരിക്കാൻ നിങ്ങൾ താൽപ്പര്യപ്പെടുമ്പോൾ ആളുകൾക്ക് ആക്സസ് ചെയ്യാനാകുമെന്നതാണ് ഇതിന്റെ ഗുണങ്ങൾ മൊബൈൽ സാങ്കേതികവിദ്യയ്ക്ക് നന്ദി ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും അല്ലെങ്കിൽ അവർ രാജ്യത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾക്ക് ടെലിഫോണിലൂടെ അവരെ ബന്ധപ്പെടാം ടെലിഫോണുകളിൽ നിരസിക്കാനുള്ള സാധ്യത കുറവാണ് നിങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തിയെ വിളിക്കാം അതിനാൽ നിരസിക്കൽ നിരക്ക് വളരെ കുറവാണ് ടെലിഫോണുകളിലൂടെ ആളുകളെ വളരെ എളുപ്പത്തിൽ ബന്ധപ്പെടാം മാത്രമല്ല ധാരാളം ആളുകളിലേക്ക് എത്തിച്ചേരാനാകും ലോകത്തിന്റെ വിവിധ ഭൂമിശാസ്ത്രപരമായ സ്ഥലങ്ങളിൽ വ്യാപിച്ചുകിടക്കുന്ന ആളുകളെ ടെലിഫോണിന് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ ഒരു ടെലിഫോണിൽ ഒരു സാധാരണ രീതിയിൽ സംസാരിക്കുക ഡാറ്റാ ശേഖരണത്തിന്റെ ഉദ്ദേശ്യത്തോടെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഉദ്ദേശ്യത്തിനായി ഒരു ടെലിഫോണിൽ സംസാരിക്കുക എന്നിവ രണ്ട് കാര്യങ്ങളാണെന്ന് ഓർമ്മിക്കുക അതിൽ വളരെയധികം വ്യത്യാസമുണ്ട് ടെലിഫോണിക് അഭിമുഖത്തിലൂടെ വിവരങ്ങൾ നേടുന്നതിന് നിങ്ങൾക്ക് ശരിയായ ആസൂത്രണം ആവശ്യമാണ് അതിനായി നിങ്ങൾ ഏത് ചോദ്യങ്ങൾ ചോദിക്കും എന്ന് കൃത്യമായി നിങ്ങളുടെ ചോദ്യങ്ങൾ ആസൂത്രണം ചെയ്യണം നിങ്ങൾ പ്രൊഫഷണൽ അഭിമുഖം നടത്തുന്നവരെയോ പ്രൊഫഷണൽ ആളുകളെയോ പോലെ ബുദ്ധിമാനായിരിക്കില്ല പക്ഷേ തീർച്ചയായും നിങ്ങൾക്ക് ആസൂത്രണം ചെയ്യാനും നിങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ ചോദ്യങ്ങൾ രൂപപ്പെടുത്താനും കഴിയും എന്നാൽ നിർദ്ദിഷ്ട ചോദ്യങ്ങൾ മാത്രം ചോദിക്കാൻ ഓർക്കുക അതിലൂടെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ നേടാൻ കഴിയും അത് ബുദ്ധിമുട്ടുള്ളതും വെല്ലുവിളി നിറഞ്ഞതുമായ ഒരു ജോലിയാണ് അതിനാൽ ശരിയായ ആസൂത്രണം ആവശ്യമാണ് ചില ഗുണങ്ങളുണ്ടെങ്കിലും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് നിങ്ങൾ വ്യക്തിയെ കാണാൻ പോകുന്നില്ല ഇപ്പോൾ വീഡിയോ കോളിംഗ് സൌകര്യത്തിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെയും കാണാൻ കഴിയും എന്നാൽ നിങ്ങൾ ആളുകളിൽ നിന്ന് ചില പ്രതികരണങ്ങൾ നേടാൻ പോകുമ്പോൾ ഓർക്കുക നിങ്ങൾ അവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകുക മാത്രമല്ല അവരുടെ വാക്കേതര പെരുമാറ്റത്തിന് പ്രാധാന്യം നൽകുകയും വേണം മാത്രമല്ല ടെലിഫോണിക് അഭിമുഖത്തിന് ഗുണങ്ങൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂവെന്ന് നമുക്ക് എല്ലായ്പ്പോഴും പറയാനാവില്ല ചോദ്യങ്ങളെ വളരെ അർത്ഥവത്തായതും വളരെ സൂക്ഷ്മവുമായ രീതിയിൽ രൂപപ്പെടുത്താൻ സഹായിക്കുന്ന ഗുണങ്ങളും ദോഷങ്ങളും നിങ്ങൾ മനസിലാക്കുമ്പോൾ ദോഷങ്ങൾക്കും നിങ്ങൾ തയ്യാറായിരിക്കണം എങ്ങനെ നിങ്ങൾ ടെലിഫോണിലൂടെ ഒരു വ്യക്തിയുമായി ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം പക്ഷേ വിശദമായ ഡാറ്റ നൽകാൻ നിങ്ങൾ മറ്റ് കക്ഷിയെ അനുവദിക്കരുത് അത് പോലെ തന്നെ മറ്റ് കക്ഷി നിങ്ങളെയും അനുവദിക്കാൻ സാധ്യതയില്ല ഒരു അഭിമുഖം എന്ന നിലയിൽ നിങ്ങൾക്ക് എല്ലാത്തരം ചോദ്യങ്ങളും എറിയാൻ താൽപ്പര്യമുണ്ട് മാത്രമല്ല നിങ്ങൾ ഇതിന് പണം നൽകേണ്ടതും ഇല്ല ജിയോയ്ക്ക് നന്ദി യഥാർത്ഥത്തിൽ ഇപ്പോൾ ആളുകൾക്ക് ഒന്നും നൽകാതെ തന്നെ ആളുകളുമായി ബന്ധപ്പെടാൻ കഴിയും എന്നാൽ അത്തരമൊരു അവസ്ഥയിൽ പോലും ടെലിഫോണിലൂടെ എല്ലാത്തരം ഡാറ്റയും വെളിപ്പെടുത്താത്ത ആളുകൾ ഉണ്ട് മാത്രമല്ല വിഷ്വലുകളിലൂടെ ഒരു നിരീക്ഷണം നടത്താൻ നിങ്ങൾ ശ്രമിക്കുകയും എല്ലാം പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നുവെങ്കിൽ അതിനർത്ഥം ചില പരിമിതികളുണ്ട് നമുക്ക് ഈ വീഡിയോ കോളിംഗ് സൌകര്യം ഇല്ലാത്തപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കോളിംഗ് സൌകര്യം ഉണ്ടായിരിക്കുമോ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല ടെലിഫോണിക് അഭിമുഖങ്ങളെ അടിസ്ഥാനമാക്കി യഥാർത്ഥത്തിൽ ഡാറ്റ ശേഖരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ചില സമയങ്ങളിൽ അസൌകര്യങ്ങൾ ഉണ്ടാകാറുണ്ട് ചില സമയങ്ങളിൽ വോയ്സ് കോളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഒരു വ്യക്തിയെ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം നിങ്ങൾക്ക് അയാളുടെ പ്രായം മനസ്സിലാകില്ല അയാളുടെ ദേശീയത നിങ്ങൾക്ക് മനസ്സിലായില്ലായിരിക്കാം അയാൾ എന്തെങ്കിലും മറയ്ക്കാൻ ശ്രമിക്കുകയാണോ അതോ വിവരങ്ങൾ ഓറിയന്റുചെയ്യാൻ ശ്രമിക്കുകയാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകില്ല അതിനാൽ അഭിമുഖത്തിന്റെ വീക്ഷണകോണിൽ നിന്ന് അയാൾക്ക് കൂടുതൽ സമയമില്ല നിങ്ങൾക്കും കൂടുതൽ സമയമില്ല കാരണം നിങ്ങളുടെ ചോദ്യോത്തര സെഷനിനിടയിൽ അയാൾ മറ്റൊരു തരത്തിലുള്ള ഉത്തരം നൽകിയാൽ കൂടുതൽ ചോദ്യങ്ങൾക്ക് ഒരു തരം ദിശ സൃഷ്ടിക്കാൻ നിങ്ങൾ തയ്യാർ ആയിരിക്കില്ല അതിനാൽ ടെലിഫോണിക് അഭിമുഖങ്ങളിലൂടെ ഒരു ഡാറ്റ ശേഖരിക്കാൻ പോകുമ്പോൾ ചില ദോഷങ്ങളുമുണ്ട് എന്നാൽ ചിലപ്പോൾ അത്തരം ആളുകളുണ്ട് പഴയ കാലങ്ങളിൽ നിങ്ങൾക്കറിയാമെങ്കിൽ ഞങ്ങൾ ആളുകളെ അവരുടെ ലാൻഡ്ലൈനുകളിൽ ബന്ധപ്പെടുമ്പോൾ ആളുകൾ ഭയന്ന് ചില തെറ്റായ വിവരങ്ങൾ നൽകിയേക്കാം അല്ലെങ്കിൽ അയാൾ ലഭ്യമല്ലെന്ന് പറഞ്ഞ് മറ്റൊരാളോട് അയാൾക്കായി പ്രതികരിക്കാൻ പറഞ്ഞേക്കാം അതിനാൽ ടെലിഫോണിക് അഭിമുഖങ്ങളിലൂടെ വിവരശേഖരണം നടത്തുന്ന ഈ രീതിയിൽ വളരെയധികം പരിമിതികളുണ്ട് അതിനാൽ ഒരു തീവ്ര നിരീക്ഷകൻ എന്ന നിലയിലും ബുദ്ധിമാനായ ഒരു അഭിമുഖം നടത്തുന്നയാൾ എന്ന നിലയിലും നിങ്ങൾ ഇത് അറിയേണ്ടതുണ്ട് നിങ്ങൾക്ക് അടിയന്തിരമായി ആവശ്യമുള്ള വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫോണിലൂടെ വ്യക്തികളെ ബന്ധപ്പെടാം എന്നാൽ പ്രത്യേകമായി അഭിമുഖത്തിനായോ ഡാറ്റാ ശേഖരണത്തിനായോ ചില പരിമിതികളുണ്ട് എന്നാൽ ആവശ്യമായ പ്രതികരണം ലഭിക്കുന്നതിന് ചോദ്യങ്ങൾ എങ്ങനെ രൂപപ്പെടുത്താമെന്ന് നിങ്ങളുടെ സ്വന്തം മനസ്സ് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ടെലിഫോണിലൂടെയോ മുഖാമുഖത്തിലൂടെയോ ആരെയെങ്കിലും അഭിമുഖം നടത്തുന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞ ജോലിയാണ് പക്ഷേ അത് വെല്ലുവിളിയാണെങ്കിൽപ്പോലും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഫലങ്ങളുണ്ടെന്ന് ഓർമ്മിക്കുക തീർച്ചയായും ടെലിഫോണിക് അഭിമുഖത്തിലൂടെ വിവരങ്ങൾ ശേഖരിക്കുന്ന ഈ രീതിക്ക് ചില പരിമിതികൾ ഉണ്ട് നമ്മളുടെ അടുത്ത പ്രഭാഷണത്തിൽ വിവരശേഖരണത്തിന്റെ മറ്റ് ചില രീതികളെക്കുറിച്ചും സംസാരിക്കും വളരെ നന്ദി